വീണ്ടും സ്വാഗതം ഇത് പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി ഇൻ ഓൺലൈൻ സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക്സ് ആഴ്ച 6 രണ്ടാം ഭാഗം ആദ്യ ഭാഗത്ത് ഇ കുറ്റകൃത്യങ്ങൾ സോഷ്യൽ നെറ്റ്വർക്കുകളിലെ വ്യത്യസ്ത തരം കുറ്റകൃത്യങ്ങൾ വ്യത്യസ്ത കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള നിർദ്ദിഷ്ട ഉദാഹരണങ്ങൾ അത് നിങ്ങളുടെ സാമൂഹിക പ്രശസ്തിയെ എങ്ങനെ ബാധിക്കുന്നു മലീഷിയസ് ഉപയോക്താക്കൾ യഥാർത്ഥത്തിൽ ഈ സോഷ്യൽ നെറ്റ്വർക്ക് ഇടപെടലുകളും വിഷയങ്ങളും എങ്ങനെ ഉപയോഗിക്കുന്നുവെന്ന് ഉത്തരം നൽകുന്നു അതിനാൽ നമ്മൾ ഇപ്പോൾ കാണാൻ പോകുന്നത് സോഷ്യൽ നെറ്റ്വർക്കുകളിലെ ചില പ്രത്യേക കുറ്റകൃത്യങ്ങളും സോഷ്യൽ നെറ്റ്വർക്കുകളിലെ പ്രശ്നങ്ങളുമാണ് നമ്മൾ ചില ഡാറ്റ സെറ്റ് എടുക്കുകയും ആ ഡാറ്റ സെറ്റ് ഉപയോഗിച്ച് ചില ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുകയും ചെയ്യും കൂടാതെ എല്ലാ പേജുകളും ഓരോ പേജുകളുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന പേജ് റാങ്ക് ആശയം ഉപയോഗിച്ച് സെർച്ച് എഞ്ചിനുകൾ വെബ്സൈറ്റുകൾക്ക് റാങ്ക് നൽകുന്നു പേജുകളുമായുള്ള ലിങ്കുകളെ ആശ്രയിച്ച് എല്ലാ പേജുകളുടെയും പേജ് റാങ്ക് വർദ്ധിക്കുന്നു അതിനാൽ അടിസ്ഥാനപരമായി നിങ്ങൾക്ക് കൂടുതൽ ഉയർന്ന ഡിഗ്രി ഉണ്ടെങ്കിൽ പേജ് റാങ്ക് വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നു അതിനാൽ ഗൂഗിൾ ഈ സാങ്കേതികവിദ്യയിൽ പ്രവർത്തിക്കുന്നു ഇവിടെ നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു വെബ്സൈറ്റ് സൃഷ്ടിക്കുന്നു നിങ്ങൾ ഇത് ലിങ്കുചെയ്യുന്നു ഉദാഹരണത്തിന് ഐഐഐടിഡി യുടെ വെബ്സൈറ്റിലേക്ക് ലിങ്കുചെയ്യുന്നു ഐഐഐടിഡി അത് നിങ്ങൾക്ക് തിരികെ നൽകുന്നു അപ്പോൾ നിങ്ങളുടെ പേജ് റാങ്ക് വളരെയധികം വർദ്ധിക്കുന്നു പേജ്റാങ്കിന് ഇത് ഒരു ലളിതമായ ആശയമാണ് എന്നാൽ വെബ്സൈറ്റിലെ ലിങ്ക് രൂപീകരണം അടിസ്ഥാനപരമായി റാങ്ക് മെച്ചപ്പെടുത്തുന്നതിനായി വെബ്സൈറ്റുകൾ മറ്റ് സൈറ്റുകളുമായി പരസ്പര ഡാറ്റ കൈമാറുന്ന ഒരു ആശയമാണ് അതിനാൽ വെബ്സൈറ്റുകൾ തമ്മിലുള്ള ലിങ്കുകൾ ഉണ്ടാക്കുക എന്നതാണ് ആശയം മറ്റ് വെബ്സൈറ്റുകളിലേക്ക് ലിങ്കുകൾ സൃഷ്ടിക്കുകയോ വെബ്സൈറ്റുകളുടെ ലിങ്കുകൾ വർദ്ധിപ്പിക്കുകയോ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ലിങ്ക് ഫാമിംഗാണ് അതേ ആശയങ്ങൾ പേജ് റാങ്കുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു നിങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു നല്ല അല്ലെങ്കിൽ നിയമാനുസൃത ലിങ്കാണ് പേജ് റാങ്ക് ഈ ലിങ്കുകൾ സൃഷ്ടിക്കപ്പെട്ട ആശയമാണ് ലിങ്ക് ഫാമിംഗ് ഇവ ഗുണകരമല്ല അതിനാൽ ലിങ്ക് ഫാമിംഗ് എങ്ങനെ പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ ലിങ്ക് ഫാമിംഗ് എന്താണെന്ന് കാണിക്കുന്നതിനുള്ള ഒരു ലളിതമായ ഡയഗ്രം ഇതാണ് സെർച്ച് എഞ്ചിന്റെ ഇൻഡക്സ് സ്പാം ചെയ്യുന്ന രീതിയാണ് ലിങ്ക് ഫാം ഇത് അടിസ്ഥാനപരമായി വ്യത്യസ്ത വെബ്സൈറ്റുകൾ തമ്മിലുള്ള ലിങ്കുകൾ വർദ്ധിപ്പിക്കുന്നു ഉദാഹരണത്തിന് വെബ്സൈറ്റ് എ ബി ഈ വെബ്സൈറ്റുകൾക്കിടയിൽ ലിങ്കുകൾ സൃഷ്ടിക്കാൻ തുടങ്ങുകയും അവ ഇല്ലെങ്കിൽ അതിനെ ലിങ്ക് ഫാമിംഗ് എന്ന് വിളിക്കുകയും ചെയ്യുന്നു ചിലപ്പോൾ ഇതിനെ സ്പാംഡെക്സിംഗ് സ്പാമെക്സിംഗ് എന്നും വിളിക്കുന്നു അതിനാൽ അതാണ് ലിങ്ക് ഫാമിംഗിന്റെ ആശയം വെബ്സൈറ്റുകൾക്കിടയിൽ നിയമാനുസൃതമല്ലാത്ത ലിങ്കുകൾ സൃഷ്ടിക്കുന്ന ഒരു മാർഗമാണ് ലിങ്ക് ഫാമിംഗ് ഇത് ചെയ്യുമ്പോഴുള്ള ആശയം നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ അത് വർദ്ധിപ്പിക്കുമ്പോൾ വെബ്സൈറ്റിലേക്ക് വരുന്ന ലിങ്കുകൾ വർദ്ധിക്കുന്നു അപ്പോൾ വെബ്സൈറ്റിന്റെ പേജ് റാങ്ക് യാന്ത്രികമായി വർദ്ധിക്കും എന്തുകൊണ്ടാണ് ട്വിറ്ററിൽ ലിങ്ക് ഫാമിംഗ് ചെയ്യുന്നത് ട്വിറ്ററിന്റെ പശ്ചാത്തലത്തിൽ ലിങ്ക് ഫാമിംഗ് എന്ന ആശയം നമ്മൾ പഠിക്കാൻ പോകുന്നു പിന്നെ എന്തുകൊണ്ടാണ് ട്വിറ്ററിൽ ലിങ്ക് ഫാമിംഗ് ചെയ്യുന്നത് ഇത് എന്താണ് സഹായിക്കുന്നത് യഥാർത്ഥത്തിൽ ട്വിറ്ററിൽ ലിങ്ക് ഫാമിംഗ് ചെയ്യുന്നതുകൊണ്ട് ആർക്കാണ് പ്രയോജനം ട്വിറ്റർ അതിന്റെ സ്വഭാവമനുസരിച്ച് വലിയ അളവിലുള്ള ഡാറ്റ സൃഷ്ടിക്കപ്പെടുന്നു ഇത് അടിസ്ഥാനപരമായി വെബിനുള്ളിലെ ഒരു വെബ് ആണ് നിങ്ങൾ ബ്രേക്കിംഗ് ന്യൂസ് നോക്കുകയാണെങ്കിൽ ട്വിറ്ററാണ് എല്ലാം ആരംഭിക്കുന്ന സ്ഥലം തത്സമയ വാർത്തകളുടെ വലിയ അളവിലുള്ള ഡാറ്റ ഇതിൽ ഉണ്ട് ട്വിറ്ററിലാണ് വാർത്തകൾ പുറത്തുവരുന്നതെന്ന് കാണിക്കാൻ നിരവധി ഗവേഷണങ്ങൾ നടന്നിട്ടുണ്ട് 2016 ലെ ഏറ്റവും പുതിയത് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ട്വിറ്ററാണ് ഒരുപക്ഷേ ഏറ്റവും മികച്ച സ്ഥലം ആളുകൾ ട്വിറ്ററിൽ ഒരു വിഷയം തിരയാൻ തുടങ്ങുന്നു ട്വിറ്റർ തീർച്ചയായും ഒരു മൈക്രോ ബ്ലോഗിംഗ് വെബ്സൈറ്റാണ് അവിടെ ആളുകൾ കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യുന്നു എന്നാൽ ട്വിറ്റർ ഉപയോഗിക്കുന്ന രീതി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് ഒരു വിഷയത്തിനായുള്ള തിരയലിനും ആളുകളിലേക്ക് തത്സമയ തിരയലിനും ഉപയോഗിക്കുന്നു അതിനാൽ നിങ്ങൾ ട്വിറ്ററിൽ ഒരു വിഷയം തിരയുമ്പോൾ ഫലങ്ങൾ അവതരിപ്പിക്കുന്ന രീതി പല ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ ട്വിറ്ററിലെ തിരയൽ എഞ്ചിനുകൾക്ക് റാങ്കുകൾ പിന്തുടരാനാകും ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്ന വ്യക്തിയുമായി നിങ്ങൾക്കുള്ള കണക്ഷനുകളെ ആശ്രയിച്ച് അത് യഥാർത്ഥത്തിൽ ഫലങ്ങൾ അവതരിപ്പിക്കാൻ കഴിയും ഉദാഹരണത്തിന് ഹാഷ് ടാഗ് വർഷം 2016 പോലുള്ള ഒരു വിഷയത്തിനായി ഞാൻ തിരയുന്നു എന്റെ സുഹൃത്തുക്കൾ ആരെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് മുകളിൽ കാണാനാകും ആളുകൾക്കുള്ള എല്ലാ ഫോളോവേഴ്സിനും ഇത് കാണിക്കാനാകും ഇത് പരിശോധിച്ചുറപ്പിച്ച അക്കൌണ്ടാണെങ്കിൽ അത് മുകളിൽ തന്നെ കാണാനാകും അതിനാൽ തിരയൽ ഫലങ്ങൾ ഇത്തരത്തിലുള്ള സാങ്കേതികതകൾക്കായി ഉപയോഗിക്കാം പേജ് റാങ്ക് ഒന്നായിരിക്കും ഈ പ്രത്യേക ട്വീറ്റിലേക്കും ഈ പ്രത്യേക ട്വീറ്റുമായി ബന്ധിപ്പിച്ചിട്ടുള്ള മറ്റ് ഉപയോക്താക്കളുമായും യഥാർത്ഥത്തിൽ എത്ര പേർ ബന്ധപ്പെട്ടിരിക്കുന്നു തിരയൽ ഫലങ്ങൾ അവതരിപ്പിക്കുന്നതിനെക്കുറിച്ച് തീരുമാനിക്കാൻ ഈ വിവരങ്ങളെല്ലാം ഉപയോഗിക്കാം തീർച്ചയായും തിരയൽ ഫലങ്ങൾ അവതരിപ്പിക്കുന്ന രീതി യഥാർത്ഥത്തിൽ ഉപയോക്താക്കളിലേക്ക് പക്ഷപാതപരമായി പോകുന്നു ട്വിറ്റർ നിങ്ങൾക്ക് 5 ലെ ഫലങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ ആ പ്രത്യേക ട്വീറ്റുകൾ നിങ്ങൾ നോക്കി പോകാൻ സാധ്യതയുണ്ട് ഇതിൽ ഉയർന്ന അളവിലുള്ള ഡാറ്റ ഉണ്ട് പേജ്റാങ്കിന്റെ ഭാഗത്ത് ഇത് ഞാൻ പരാമർശിച്ചതായി കരുതുന്നു ഉയർന്ന അളവിലുള്ള ഡാറ്റ എന്നതിനർത്ഥം ഇതിന് ധാരാളം അനുയായികളുണ്ടെന്നാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന അനുയായികളുടെ എണ്ണം സാമൂഹിക പ്രശസ്തിയുടെ അളവാണ് ആറാം ആഴ്ചയിലെ അവസാന ഭാഗത്ത് ഞാൻ ഇത് പരാമർശിച്ചു ക്ലൌട്ട് എന്നൊരു സ്കോർ ഉണ്ട് ക്ലൌട്ട് സ്കോർ എന്താണെന്ന് നോക്കാൻ ആളുകൾ നിങ്ങളെ ശുപാർശചെയ്യും ക്ലൌട്ട് നിങ്ങളുടെ എല്ലാ ഓൺലൈൻ സാന്നിധ്യത്തിനു പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ അക്കങ്ങൾ നൽകുന്ന ഒരു മാർഗമാണ് ഉദാഹരണത്തിന് എന്റെ സ്കോർ 24 ആണെങ്കിൽ അടിസ്ഥാനപരമായി അർത്ഥമാക്കുന്നത് 1 മുതൽ 100 വരെയുള്ള സ്കെയിലിൽ സോഷ്യൽ മീഡിയ സേവനങ്ങളിൽ എനിക്ക് എന്ത് തരത്തിലുള്ള സ്വാധീനമാണ് ഉള്ളത് എന്നാണ് ക്ലൌട്ട് ഒരു രസകരമായ സംവിധാനമാണ് ക്ലൌട്ട് യഥാർത്ഥത്തിൽ ഈ മൂല്യങ്ങൾ എങ്ങനെ കണ്ടെത്തുന്നു എന്നതിനെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു പേപ്പർ ഉണ്ട് ഉപയോക്താക്കളുടെ സ്വാധീനം അളക്കുന്നതിനുള്ള ഒരു മാർഗമായി ഗവേഷകർ ക്ലൌട്ട് സ്കോർ ഉപയോഗിച്ചു സ്വാധീനം ചെലുത്തുന്ന വ്യക്തിയുടെ വിഷയം യഥാർത്ഥത്തിൽ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം ഒരു സ്വാധീനക്കാരൻ ആരാണെന്ന് നിർവ്വചിക്കേണ്ടതുണ്ട് ഇത് കൂടുതൽ കൂടുതൽ ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുകയാണ് അതിനാൽ ട്വിറ്ററിലെ ലിങ്ക് ഫാമിംഗ് ഇൽ അടിസ്ഥാനപരമായി ഒരു വലിയ അളവിലുള്ള ഡാറ്റ സൃഷ്ടിക്കപ്പെടുന്നു തത്സമയ വിവരങ്ങൾ അവിടെ പ്രചരിക്കുകയും ഉപയോക്താക്കൾ വിഷയത്തിനായി തിരയുമ്പോൾ വിവരങ്ങൾ യഥാക്രമം ലിങ്കുകളെ ആശ്രയിച്ച് പേജ് റാങ്ക് അനുസരിച്ച് ഒരു റാങ്ക് പിന്തുടരുന്ന ലിങ്കുകളെ ആശ്രയിച്ച് ഉപയോക്താക്കൾ നൽകുന്ന ലിങ്കുകളെ ആശ്രയിച്ച് അവതരിപ്പിക്കുന്നു ട്വിറ്ററിലെ ലിങ്ക് ഫാമിംഗിൽ സ്പാമർമാർ അടിസ്ഥാനപരമായി മറ്റ് ഉപയോക്താക്കളെ പിന്തുടരുകയും അവരെ തിരികെ പിന്തുടരാൻ ശ്രമിക്കുകയും ചെയ്യുന്നു അടിസ്ഥാനപരമായി അവർ എങ്ങനെ ഇൻ ഡിഗ്രി വർദ്ധിപ്പിക്കും ഞാൻ സ്പാമർ ആണെങ്കിൽ ഇൻ ഡിഗ്രി വർദ്ധിക്കും ഞാൻ ആയിരക്കണക്കിന് ആളുകളെ പിന്തുടരാൻ തുടങ്ങുന്നു നിങ്ങൾ യഥാർത്ഥത്തിൽ എന്നെ പിന്തുടരാനുള്ള സാധ്യതയുണ്ട് വീണ്ടും ഒന്നിലധികം ഗവേഷകർ പരസ്പരബന്ധം എങ്ങനെ നേടാമെന്ന് കാണിച്ചു തന്നിട്ടുണ്ട് ഞാൻ നിങ്ങളെ പിന്തുടരുകയാണെങ്കിൽ നിങ്ങൾ എന്നെ പിൻതുടരാനുള്ള ഉയർന്ന സാധ്യതയുണ്ട് ഈ ഫലത്തിനാൽ ലിങ്ക് ഫാമിംഗ് വർദ്ധിക്കുന്നു അതിനാൽ ലിങ്ക് ഫാം വർദ്ധിപ്പിക്കുന്നതിന് ട്വിറ്റർ ഉപയോഗിക്കാം അതിനാൽ വെബ് ട്വിറ്റർ എന്നിവയിലെ ലിങ്ക് ഫാമിംഗിന്റെ വ്യത്യാസങ്ങളും സമാനതകളും കാണിക്കുന്ന ഒരു സ്ലൈഡ് ആണ് ഇത് വെബിൽ എന്റെ പേജ് റാങ്ക് വർദ്ധിപ്പിക്കുകയും എന്റെ ഇൻ ഡിഗ്രി വർദ്ധിപ്പിക്കുകയും തിരയൽ ഫലങ്ങളിൽ കാണിക്കാനുള്ള എന്റെ സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ട്വിറ്ററിൽ ഇൻ ഡിഗ്രി വർദ്ധിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ലാഭം വർദ്ധിപ്പിക്കുന്നു അതുപോലെ തിരയൽ ഫലങ്ങളിൽ എന്റെ ട്വീറ്റുകളിൽ കാണിക്കാൻ കഴിയും വെബിൽ സ്പാമർമാർ യഥാർത്ഥത്തിൽ ലിങ്ക് ഫാമിംഗ് ഉപയോഗിക്കുന്നു ട്വിറ്ററിൽ സ്പാമർമാർ യഥാർത്ഥത്തിൽ ലിങ്ക് ഫാമിംഗ് ചെയ്യുന്നു പക്ഷേ ഇത് നിയമപരവും ജനപ്രിയവുമായ ഉപയോക്താക്കളും ചെയ്യാറുണ്ട് നിങ്ങളുടെ അനുയായികളുടെ എണ്ണം ഉയർത്തിക്കൊണ്ട് നിങ്ങൾ യഥാർത്ഥത്തിൽ ഇൻ ഡിഗ്രി വർദ്ധിപ്പിക്കുന്നു മുഴുവൻ ആശയവും അതാണ് എന്ന് ഞാൻ കരുതുന്നു അതിനാൽ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഒരു വലിയ സംഖ്യ അല്ലെങ്കിൽ വലിയൊരു കൂട്ടം ഉപയോക്താക്കൾക്ക് അവതരിപ്പിക്കാനാകും തീർച്ചയായും ട്വിറ്ററിന്റെ പശ്ചാത്തലത്തിൽ വെബിന്റെ പശ്ചാത്തലത്തിൽ ഞാൻ നിങ്ങളുടെ വെബ്സൈറ്റ് ലിങ്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്റെ വെബ്സൈറ്റിലേക്ക് തിരികെ ലിങ്കുചെയ്യേണ്ട ആവശ്യമില്ല ഹൈപ്പർലിങ്കുകൾ ആ രീതിയിൽ സൃഷ്ടിക്കപ്പെട്ടതല്ല അതേസമയം ട്വിറ്ററിന്റെ പശ്ചാത്തലത്തിൽ ഈ ക്ലാസ് എടുക്കുന്ന വിദ്യാർത്ഥികളിൽ ഒരാളെ ഞാൻ പിന്തുടരുകയാണെങ്കിൽ വിദ്യാർത്ഥി എന്നെ തിരികെ പിന്തുടരാനുള്ള ഉയർന്ന സാധ്യതയുണ്ട് അതുപോലെ ഞാൻ ഒരു പ്രൊഫസറെ പിന്തുടരുകയാണെങ്കിൽ പ്രൊഫസർ എന്നെ പിന്തുടരാനുള്ള ഉയർന്ന സാധ്യതയുണ്ട് ട്വിറ്ററിലെ സ്പാം പശ്ചാത്തലത്തിൽ ചില ഗവേഷണങ്ങൾ ചർച്ച ചെയ്യാമെന്ന് ഞാൻ കരുതുന്നു ഞാൻ 2 അല്ലെങ്കിൽ 3 ഗവേഷണ ഫലങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാമെന്ന് ഞാൻ കരുതുന്നു വിശാലമായ അർത്ഥത്തിൽ സ്പാം ആയ ലിങ്ക് ഫാമിംഗിന്റെ സന്ദർഭം സൂക്ഷിക്കാൻ പോകുന്നു അതിനാൽ സ്പാം കാമ്പെയ്നുകൾ സസ്പെൻഡഡ് അക്കൌണ്ടുകൾ ഇൻ റെട്രോസ്പെക്റ്റ് ട്വിറ്റർ സ്പാം വിശകലനം Suspended accounts in Retrospect An Analysis of Twitter Spam" എന്ന പേരിൽ ഒരു പേപ്പർ ഉണ്ട് അതിൽ പറയുന്നത് എന്തെന്നാൽ 145 ആയിരം അക്കൌണ്ടുകൾ നിയന്ത്രിക്കുന്ന 5 സ്പാം കാമ്പെയ്നുകൾക്ക് ഒരുമിച്ച് മാസങ്ങളോളം നിലനിൽക്കാൻ കഴിയും എന്നാണ് ചുരുക്കത്തിൽ 7 മാസത്തിനിടെ വിനാശകരമായ പ്രവർത്തനങ്ങൾക്കായി ട്വിറ്റർ താൽക്കാലികമായി നിർത്തിവച്ച 1 1 ദശലക്ഷം അക്കൌണ്ടുകൾ ഞങ്ങൾ തിരിച്ചറിയുന്നു ഈ പ്രക്രിയയിൽ ഞങ്ങൾ 1 8 ബില്യൺ ട്വീറ്റുകളുടെ ഒരു ഡാറ്റാസെറ്റ് ശേഖരിച്ചു അതിൽ 80 ദശലക്ഷം സ്പാം അക്കൌണ്ടുകളുടേതാണ് സ്പാമിൽ വരുന്ന പ്രശ്നം ഈ സോഷ്യൽ നെറ്റ്വർക്കുകളിൽ മാത്രമല്ല അവ കൂടുതൽ കാലം നിലനിൽക്കുകയും ചെയ്യുന്നു എന്നതാണ് അതിനാൽ 145000 അക്കൌണ്ടുകൾ നിയന്ത്രിക്കുന്ന 7 സ്പാം കാമ്പെയ്നുകൾ ഇവിടെയുണ്ട് അവ ഒന്നിലധികം മാസങ്ങളായി നിലനിൽക്കുന്നു അബ്സ്ട്രക്ടിന്റെ മറ്റൊരു ഭാഗത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്തെന്നാൽ ട്വിറ്റർ തിരിച്ചറിഞ്ഞ സ്പാം അക്കൌണ്ടുകളിൽ 77 ശതമാനവും അവരുടെ ആദ്യ ട്വീറ്റിന്റെ ഒരു ദിവസത്തിനുള്ളിൽ താൽക്കാലികമായി നിർത്തിവച്ചതായി ഞങ്ങളുടെ ഫലങ്ങൾ കാണിക്കുന്നു എന്നാണ് അതിനാൽ സ്പാം പശ്ചാത്തലത്തിൽ ട്വിറ്ററിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ചില ആശയങ്ങളാണ് ഇവ ട്വിറ്ററിലെ സ്പാം പശ്ചാത്തലത്തിൽ ഇതാ മറ്റൊരു ഗവേഷണ പ്രബന്ധം അതിനെ സ്പാം 140 കാരക്ടര്സ് ഓർ ലെസ്സ് എന്ന് വിളിക്കുന്നു അവർ കണ്ടെത്തിയത് സൈറ്റിൽ പോസ്റ്റുചെയ്ത 25 ദശലക്ഷം യുആർഎല്ലു കളിൽ 8 ശതമാനം ഫിഷിംഗ് മാൽവെയർ സ്കാമുകൾ എന്നിവ ചൂണ്ടിക്കാണിക്കുന്നു അതിനാൽ അത് യഥാർത്ഥത്തിൽ മലീഷിയസ് ആയ യുആർഎല്ലുകൾ ആണ് 25 ദശലക്ഷം യുആർഎല്ലുകളിൽ 8 ശതമാനം മാൽവെയർ ഫിഷിംഗ് സ്കാമുകൾ മലീഷിയസ് എന്നിവ ചൂണ്ടിക്കാണിക്കുന്നു കൂടാതെ ക്ലിക്ക് നിരക്ക് യഥാർത്ഥത്തിൽ കൂടുതലാണെന്ന് അവർ കണ്ടെത്തി അതിനാൽ ഉപയോക്താക്കളെ ഒരു ക്ലിക്കിലൂടെ സ്പാം പേജുകൾ സന്ദർശിക്കാൻ നിർബന്ധിതമാക്കുന്നതിനുള്ള ഏറ്റവും വിജയകരമായ പ്ലാറ്റ്ഫോമാണ് ട്വിറ്റർ എന്ന് നമ്മൾ കണ്ടെത്തി ഇമെയിൽ സ്പാമിൽ മുമ്പ് റിപ്പോർട്ടുചെയ്തതിനേക്കാൾ 0 13 ശതമാനം കൂടുതൽ ആണ് ഇത് അതിനാൽ നിങ്ങൾക്ക് ഇമെയിലിലെ 10 ശതമാനം കിഴിവോടെ ഒരു ഉൽപ്പന്നം വാങ്ങുന്നതിന് ഈ ലൈനിൽ ക്ലിക്കുചെയ്യുക എന്ന് സന്ദേശം ലഭിക്കുകയാണെങ്കിൽ ഈ ലിങ്കിൽ നിങ്ങൾ ക്ലിക്കുചെയ്യാനുള്ള സാധ്യത കുറവാണ് എന്നതാണ് ആശയം അതേസമയം നിങ്ങൾ ട്വിറ്ററിൽ പിന്തുടരുന്ന ഒരാളിൽ നിന്ന് പോസ്റ്റ് വരുന്നുവെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ അത് പരിശോധിക്കാൻ സാധ്യതയുണ്ട് അതിനാൽ സോഷ്യൽ നെറ്റ്വർക്കുകളുടെ പശ്ചാത്തലത്തിൽ ഒരുപക്ഷേ നിരക്ക് കൂടുതലായിരിക്കുന്നത് അതുകൊണ്ടാണ് കാരണം ഈ പോസ്റ്റുകൾ നിങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്നാണ് വരുന്നത് ഞങ്ങൾ നേരത്തെ സംസാരിച്ച അസോസിയേറ്റഡ് പ്രസ് ഉദാഹരണം നിങ്ങൾ ഓർക്കുക അവിടെ വൈറ്റ് ഹൌസ് സ്ഫോടനത്തെക്കുറിച്ച് പരാമർശമുണ്ടെന്ന് ഞാൻ പറഞ്ഞു ഇത് വളരെ ചെലവേറിയതായിരുന്നു കാരണം ഇത് യഥാർത്ഥത്തിൽ അസോസിയേറ്റഡ് പ്രസ്സിൽ നിന്നാണ് വരുന്നത് കൂടാതെ ഇത് പിന്തുടരുന്ന ധാരാളം ആളുകൾ ഉണ്ട് കൂടാതെ ഇത് പരിശോധിച്ച അക്കൌണ്ടും ആണ് അതിനാൽ ക്ലിക്ക് നിരക്ക് ഉയർന്നതും ക്ലിക്ക് നിരക്കുകൾ കൂടുതലാണെന്നതും യഥാർത്ഥത്തിൽ കൂടുതൽ വിജയകരമായ സ്പാം പ്രചാരണമായി മാറും ഇത് മൂന്നാമത്തേതാണ് മൂന്നാമത്തെ ഗവേഷണത്തിന് ട്വിറ്ററിലെ ഓട്ടോമേറ്റഡ് ആക്റ്റിവിറ്റി കണ്ടെത്തലും വിശകലനവും എന്നാണ് പേരിട്ടിരിക്കുന്നത് ഇത് കാണിക്കുന്നത് 16 ശതമാനം സജീവ അക്കൌണ്ടുകൾ ഉയർന്ന അളവിലുള്ള ഓട്ടോമേഷൻ പ്രദർശിപ്പിക്കുന്നു എന്നതാണ് സോഷ്യൽ നെറ്റ്വർക്കുകളിൽ പ്രത്യേകിച്ച് ട്വിറ്ററിൽ ഓട്ടോമേറ്റഡ് പോസ്റ്റ് തിരിച്ചറിയാൻ ഒന്നിലധികം ആളുകൾ പ്രവർത്തിക്കുന്നു ആളുകൾ ശ്രമിക്കുന്നതും ഗവേഷകർ ശ്രമിച്ചതുമായ ഒരു ലളിതമായ സാങ്കേതികത മറ്റ് ചില ഉൽപ്പന്നങ്ങളിലും ഇത് ഉപയോഗിക്കുന്നുണ്ട് ആരെങ്കിലും ചെയ്യുന്ന പോസ്റ്റിന്റെ ആവൃത്തി നോക്കുക എന്നതാണ് ഒരു മനുഷ്യനെന്ന നിലയിൽ നിങ്ങളും ഞാനും 50 ട്വീറ്റുകളോ 45 ട്വീറ്റുകളോ പോസ്റ്റുചെയ്യില്ല ബോട്ട് പോലത്തെ ഒരു ഓട്ടോമേറ്റഡ് സേവനം യഥാർത്ഥത്തിൽ അത് ചെയ്യും അതിനാൽ ആളുകൾ ഗ്രാഫിൽ ദിവസത്തിന്റെ മണിക്കൂറും മണിക്കൂറിന്റെ മിനിറ്റും വരയ്ക്കുന്നു എക്സ് ആക്സിസ് മണിക്കൂറിന്റെ മിനിറ്റും വൈ ആക്സിസ് പകലിന്റെ മണിക്കൂറും ആകാം നിങ്ങൾ പ്ലോട്ട് വരയ്ക്കുകയാണെങ്കിൽ അവ പരസ്പരം വളരെ അടുത്താണെങ്കിൽ യഥാർത്ഥത്തിൽ ഈ പോസ്റ്റ് ചെയ്തത് ഒരു ഓട്ടോമേറ്റഡ് സേവനമാണെന്നതിന് ഉയർന്ന സാധ്യതയുണ്ട് 16 ശതമാനം സജീവ അക്കൌണ്ടുകൾ ഉയർന്ന അളവിലുള്ള ഏകോപനം പ്രദർശിപ്പിക്കുന്നു ബ്രൌസറിലൂടെ മാത്രം പ്രസിദ്ധീകരിക്കുന്ന അക്കൌണ്ടുകളിൽ 11 ശതമാനം അപ്ഡേറ്റുകളുടെ ഉറവിടം ഓട്ടോമേറ്റഡ് അക്കൌണ്ടുകളാണെന്നും അവർ കണ്ടെത്തി അതും രസകരമാണ് ഉള്ളടക്കം സ്പാം ചെയ്യപ്പെടുന്നുവെന്നത് മാത്രമല്ല ഉറവിടത്തിന്റെ സ്പാമിങ്ങും പോസ്റ്റ് എങ്ങനെ ചെയ്തുവെന്നതുമാണ് കാര്യം അതിനാൽ നമ്മൾ ഉത്തരം നൽകാൻ പോകുന്ന നിർദ്ദിഷ്ട ചോദ്യങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത് 2009 ൽ ശേഖരിച്ച ട്വിറ്ററിന്റെ മുഴുവൻ ഡാറ്റ സെറ്റും ഉപയോഗിച്ച് നടത്തിയ ഗവേഷണമാണ് നമ്മൾ യഥാർത്ഥത്തിൽ നോക്കാൻ പോകുന്നത് ഇതിന് 54 ദശലക്ഷം ഉപയോക്താക്കളുണ്ട് ഉപയോക്താക്കളുടെ എണ്ണവും കണക്ഷനുകളും ഇൻഫ്രാസ്ട്രക്ചറും നിങ്ങൾക്ക് ഈ ഡാറ്റ ശേഖരിക്കേണ്ടതിനാൽ അതിന്റെ ഡാറ്റ ശേഖരിക്കുന്നത് ഇന്ന് വളരെ ബുദ്ധിമുട്ടായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു അതിനാൽ 2009 ൽ നമുക്ക്54 ദശലക്ഷം ഉപയോക്താക്കളുണ്ട് ഉപയോക്താക്കൾക്കിടയിൽ 1 9 ബില്യൺ ലിങ്കുകളുണ്ട് ഇത് ഒരുപക്ഷേ ട്വിറ്ററിലെ ഏറ്റവും വലിയ ഡാറ്റ സെറ്റുകളിൽ ഒന്നാണ് അതിനാൽ അനുയായിയുടെ നിർവചനം എങ്ങനെയാണ് പിന്തുടരുന്നവർ ഈ സന്ദർഭത്തിൽ ഉപയോഗിക്കുന്നു A യും B യും B യിൽ നിന്നും A ലേക്ക് പോകുന്നതും തമ്മിൽ ഒരു ലിങ്ക് ഉണ്ടെങ്കിൽ അവയെ ആ ദിശയിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ B എന്നത് A യുടെ B പിന്തുടരുന്നതും B A യുടെ അനുയായിയുമാണ് പിശക് വശത്ത് സ്ഥിതിചെയ്യുന്ന ഭാഗത്തേക്ക് അടയാളപ്പെടുത്തിയിരിക്കുന്നു അതിനാൽ ഇത് A ആണ് A യുടെ പിന്തുടർച്ചക്കാരൻ A യും B യും പിന്തുടരുന്നു കോഴ്സിന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ ട്വിറ്റർ അടിസ്ഥാനപരമായ പദങ്ങൾ സംസാരിച്ചതായി ഞാൻ കരുതുന്നു അതിനാൽ അത് നിങ്ങളെ പിന്തുടരുന്നതും പിന്തുടരപെടുകയുമാണ് ചുവടെയുള്ള ഗ്രാഫിൽ സ്പാം ടാർഗെറ്റുകൾ വ്യക്തമാക്കുന്നു അത് സ്പാം അയയ്ക്കാൻ പോകുന്ന ടാർഗെറ്റുകൾ ടാർഗെറ്റുചെയ്ത ഫോളോവർ സ്പാം ഫോളോവർ എന്നിവ ആണ് അതിനാൽ ബി സി എന്നിവ അടിസ്ഥാനപരമായി സ്പാം പിന്തുടരുന്നവരെ കാണിക്കുന്നു അവയാണ് എസ് പിന്തുടരാൻ പോകുന്നത് A B എന്നിവയാണ് സ്പാം ലക്ഷ്യങ്ങൾ എസ് ൽ നിന്ന് അവർക്ക് സ്പാം ലഭിക്കാൻ പോകുന്നു അതിനാൽ നിബന്ധനകൾ പിന്തുടരുകയും പിന്തുടരപെടുകയും യും ചെയ്യും സമയം ചെലവഴിക്കാൻ പോകുന്ന സ്പാം ടാർഗെറ്റുകൾ അയച്ചവർ സ്പാം ഫോളോവേഴ്സ് ഇവയാണ് പിന്തുടരാൻ പോകുന്നത് B യും C യും അല്ലെങ്കിൽ B യ്ക്ക് തുല്യമായ അടിസ്ഥാനവും ഗ്രാഫ് സ്പാം ഫോളോവേഴ്സിന്റെ ആദ്യ ഭാഗവും തീർച്ചയായും ടാർഗെറ്റുചെയ്ത അനുയായിയും അത് അർത്ഥവത്താണ് അങ്ങനെ അവർ 379340 അക്കൌണ്ടുകൾ രൂപീകരിച്ചു അത് 2009 ഓഗസ്റ്റ് മുതൽ 2011 ഫെബ്രുവരി വരെ താൽക്കാലികമായി നിർത്തിവച്ചു ഉയർന്ന സ്പാം പ്രവർത്തനവും ലോഗിൻ ആക്റ്റിവിറ്റിയും ഉള്ളതിനാൽ ഈ അക്കൌണ്ടുകൾ താൽക്കാലികമായി നിർത്തിവച്ചു 41352 താൽക്കാലികമായി നിർത്തിവച്ച അക്കൌണ്ടുകൾ കുറഞ്ഞത് ഒരു ബ്ലാക്ക്ലിസ്റ്റുചെയ്ത യൂആർഎൽ നെ പോസ്റ്റുചെയ്തു അവയെ ബിറ്റ്ലി അല്ലെങ്കിൽ ടൈനി യൂആർഎൽ ഉപയോഗിച്ച് ചുരുക്കി അതിനാൽ ഒരു കൂട്ടം യൂആർഎൽ ഷോർട്ട്നറുകൾ ഉണ്ട് ബിറ്റ്ലി അല്ലെങ്കിൽ ടൈനി യൂആർഎൽ നിങ്ങളിൽ ചിലർ ഇത് ഉപയോഗിച്ചിരിക്കാം ഇല്ലെങ്കിൽ ദയവായി പോയി നോക്കുക യുആർഎൽ ഷോർട്ടനറുകൾക്കുള്ള ആശയം നിങ്ങൾക്ക് ഒരു നീണ്ട യുആർഎൽ പങ്കിടണമെങ്കിൽ പ്രത്യേകിച്ചും സോഷ്യൽ നെറ്റ്വർക്കുകളുടെ സ്വാധീനവും സോഷ്യൽ നെറ്റ്വർക്കുകളുടെ വളർച്ചയും കാരണം ഇത്തരത്തിലുള്ള യുആർഎൽ ഷോർട്ടനറുകൾ യഥാർത്ഥത്തിൽ വളരെ ജനപ്രിയമാണ് കാരണം ട്വിറ്ററിൽ 140 അക്ഷരങ്ങൾ മാത്രമുള്ള ഒരു പോസ്റ്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുമ്പോൾ യുആർഎൽ പോസ്റ്റുചെയ്യുന്നതിൽ ധാരാളം സ്ഥലം ചെലവഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പകരം ഞാൻ യഥാർത്ഥത്തിൽ യുആർഎൽ ഷോർട്ട്നറിലേക്ക് അയയ്ക്കും അത് ലിങ്കിന്റെ ദൈർഘ്യം കുറയ്ക്കും ഇത് 100 പ്രതീകങ്ങൾ പോലെയാണെങ്കിൽ അത് ബിറ്റ്ലി ഉപയോഗിച്ച് 6 അല്ലെങ്കിൽ 8 അദ്വിതീയ പ്രതീകങ്ങളായി പരിവർത്തനം ചെയ്യും ഈ ഹ്രസ്വ യുആർഎൽ നമ്മളെ യഥാർത്ഥ വെബ്സൈറ്റിലേക്ക് റീഡയറക്ട് ചെയ്യും അതിനാൽ സസ്പെൻഡ് ചെയ്ത 41 ആയിരം അക്കൌണ്ടുകൾ കുറഞ്ഞത് ഒരു യുആർഎൽ എങ്കിലും പോസ്റ്റ് ചെയ്തു അത് യഥാർത്ഥത്തിൽ ചുരുക്കിയതായിരുന്നു നമുക്ക് സ്പാം മാത്രം നോക്കാം സ്പാം ടാർഗെറ്റുകൾ സ്പാം ഫോളോവേഴ്സ് മുഴുവൻ ഫോളോവേഴ്സ് തുടങ്ങിയ പദങ്ങൾ നിങ്ങൾ ഓർക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഗ്രാഫിന്റെ താഴെ വെൻ ഡയഗ്രം കാണിക്കുന്നത് നിങ്ങൾക്ക് സ്പാം ടാർഗെറ്റുകൾ ഏകദേശം 13 ദശലക്ഷവും ടാർഗെറ്റുചെയ്ത ഫോളോവേഴ്സും ഒരു ദശലക്ഷവും സ്പാം ഫോളോവേഴ്സ് ഏകദേശം 248 ആയിരം ആയിരുന്നു സ്പാം ഫോളോവേഴ്സിൽ 82 ശതമാനം സ്പാം ടാർഗെറ്റുകളുമായി ഓവർലാപ്പ് ചെയ്യുന്നു ആരാണ് സ്പാം ഫോളോവേഴ്സ് ചില അക്കൌണ്ടുകൾ പിന്തുടരാൻ പോകുന്നത് യഥാർത്ഥത്തിൽ സ്പാം ടാർഗെറ്റുകളുടെ ഭാഗമാണ് സ്പാം ഫോളോവേഴ്സിൽ 82 ശതമാനം സ്പാം ടാർഗെറ്റുകളുമായി ഓവർലാപ്പ് ചെയ്യുന്നു അപ്പോൾ എന്താണ് നല്ല വഴി അതിനാൽ ഡാറ്റയെ നോക്കുന്നതിനുള്ള ഒരു രസകരമായ മാർഗ്ഗം ഇതാണ് ഇത് ക്യുമുലേറ്റീവ് സിഡിഎഫാണ് ഇത് യഥാർത്ഥത്തിൽ X അക്ഷത്തിൽ നോഡ് റാങ്കും Y അക്ഷത്തിലെ സ്പാമറുകളുടെ ക്യുമുലേറ്റീവ് നമ്പറും കാണിക്കുന്നു ഇതിൽ നിന്ന് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ചില രസകരമായ നിഗമനങ്ങളുണ്ട് പേജ് റാങ്ക് അനുസരിച്ച് ടോപ്പ് കെ യിൽ റാങ്ക് ചെയ്യുന്ന സ്പാമർമാരുടെ എണ്ണം ഉപയോക്താവിന്റെ റാങ്ക് അനുസരിച്ച് റാങ്ക് ചെയ്യപ്പെടുന്നു അതിനാൽ ആദ്യ 10000 ഉപയോക്താക്കൾക്കുള്ളിൽ നിങ്ങൾ കാണുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ 7 സ്പാമറുകൾ ഉണ്ട് എന്താണ് ഇതിന്റെ അര്ഥം ഇതിനർത്ഥം നിങ്ങൾ യഥാർത്ഥത്തിൽ ട്വിറ്ററിന്റെ എല്ലാ ഉപയോക്താക്കളുടെയും റാങ്ക് പട്ടികപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഫോളോവേഴ്സിനെ നോക്കുകയോ അല്ലെങ്കിൽ പേജ് റാങ്ക് അല്ലെങ്കിൽ നോഡ് റാങ്ക് അല്ലെങ്കിൽ ആ ഫോളോവേഴ്സിന്റെ ഇൻ ഡിഗ്രി കാണുകയോ ചെയ്താൽ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ 7 സ്പാമറുകൾ കാണാൻ കഴിയും മികച്ച 10000 ഉപയോക്താക്കളും 1004 ൽ 304 പേരും ആദ്യ 1 ദശലക്ഷം ഉപയോക്താക്കൾക്കുള്ളിൽ 2131 പേരും കാണാൻ കഴിയും പേജ് റാങ്കിലുള്ള 10 ലക്ഷം ഉപയോക്താക്കളെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഈ 10 ലക്ഷം ഉപയോക്താക്കളുടെ രണ്ടായിരം ഉപയോക്താക്കൾ യഥാർത്ഥത്തിൽ സ്പാമർമാരാണെന്ന് നിങ്ങൾ കാണും അതിനാൽ സ്പാമറുകൾ യഥാർത്ഥത്തിൽ വളരെ ജനപ്രിയമാണെന്നതിന്റെ അർത്ഥം ഇത് നിങ്ങൾക്ക് നൽകുന്നു ഈ ഉപയോക്താക്കൾക്ക് ഉയർന്ന ഇൻ ഡിഗ്രിയുണ്ടെന്ന് ഇത് കാണിക്കുന്നു ഇത് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്ന പ്രശ്നത്തിന്റെ പശ്ചാത്തലമാണ് ഇത് ലിങ്ക് ഫാമിംഗ് ആണ് അത് കൊണ്ട് ഞാൻ ആഴ്ചയുടെ രണ്ടാം ഭാഗം യഥാർത്ഥത്തിൽ നിർത്തുന്നു ബാക്കി ഫലങ്ങളും വിശകലനവും ഞാൻ ഉടൻ തുടരും